ഹലോ സെക്യൂർ സിസ്റ്റംസ് എൻജിനീയറിങ്ങിന്റെ ഈ ലെക്ച്ചറിലേക്കു സ്വാഗതം ഫോൾട്ട് ഇൻജെക്ഷൻ അറ്റാക്കിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ നമ്മൾ മുമ്പത്തെ ലെക്ച്ചറിൽ കണ്ടിരുന്നു RSA പബ്ലിക് കീ സൈഫറിൻ മേൽ ഉള്ള ലളിതമായ ഒരു ഫോൾട്ട് ഇൻജെക്ഷൻ അറ്റാക്ക് നമ്മൾ കണ്ടിരുന്നു AES എന്നറിയപ്പെടുന്ന ബ്ലോക്ക് സൈഫറിൻ മേൽ ഉള്ള ഫോൾട്ട് ഇൻജെക്ഷൻ അറ്റാക്കാണ് ഈ ലെക്ച്ചറിൽ കാണാൻ പോകുന്നത് AES അൽഗോരിതവും AES എൻക്രിപ്ഷൻറെ ഭാഗമായി വരുന്ന പല ഓപ്പറേഷനുകളും നിങ്ങൾക്കറിയാമെന്നു വിചാരിക്കുന്നു ബ്ലോക്ക് സൈഫറിൻ മേൽ ഉള്ള ഫോൾട്ട് അറ്റാക്ക് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നു നോക്കാം AES എൻക്രിപ്ഷൻ ചെയ്യാനായി അറ്റാക്കർ ഒരു ഡിവൈസ് ആണ് ഉപയോഗിക്കുന്നത് അതിൽ എൻക്രിപ്ഷനു വേണ്ടിയുള്ള കീ സ്റ്റോർ ചെയ്തു വച്ചിട്ടുണ്ട് അപ്പോൾ അറ്റാക്കറുടെ ആവശ്യം ഈ രഹസ്യ കീ കൈക്കലാക്കുക എന്നതാണ് അതിനായി അറ്റാക്കർ എൻക്രിപ്ഷൻ അല്ലെങ്കിൽ ഡീക്രിപ്ഷൻ ചെയ്യുന്ന ഭാവേന ഫോൾട്ട്സ് സൈഫർ ഇൻപുട്ട് ചെയ്തുകൊണ്ടേയിരിക്കും അറ്റാക്കറിനു എൻക്രിപ്റ്റ് ചെയ്യേണ്ട പ്ലെയിൻ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാനും അതിൻറെ സൈഫർ ടെക്സ്റ്റ് കാണാനും കഴിയുമെന്ന് നമുക്ക് അനുമാനിക്കാം മുമ്പത്തെ വീഡിയോയിൽ കണ്ട അടിസ്ഥാനപരമായ അറ്റാക്ക് നടക്കുന്നത് ഇത് പോലെയാണ് അറ്റാക്കർ എൻക്രിപ്റ്റ് ചെയ്യാനായി ഡിവൈസിനു ഒരു റാൻഡം പ്ലെയിൻ ടെക്സ്റ്റ് നൽകുന്നു ഡിവൈസ് അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന രഹസ്യ കീ ഉപയോഗിച്ച് എൻക്രിപ്ഷൻ നടത്തി സൈഫർ ടെക്സ്റ്റ് ഉണ്ടാക്കുന്നു നമുക്കതിനെ ഫോൾട്ട് ഫ്രീ സൈഫർ ടെക്സ്റ്റ് എന്ന് വിളിക്കാം ഇനി ഈ പ്ലെയിൻ ടെക്സ്റ്റിനെ ഒരിക്കൽ കൂടി അതേ രഹസ്യ കീ ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്യുന്നു പക്ഷേ ഈ എൻക്രിപ്ഷനിൽ അറ്റാക്കർ ഒരു ഫോൾട്ട് കൂടി ഇൻജെക്ട് ചെയ്യുന്നു ഈ ഫോൾട്ട് എൻക്രിപ്ഷൻ പ്രവൃത്തി താറുമാറാക്കുന്നതിനാൽ നമുക്ക് ഒരു ഫോൾട്ടി സൈഫർ ടെക്സ്റ്റ് ആണ് കിട്ടുക ഈ ഫോൾട്ടി സൈഫർ ടെക്സ്റ്റും ഫോൾട്ട് ഫ്രീ സൈഫർ ടെക്സ്റ്റും ഉപയോഗിച്ച് കൊണ്ട് അറ്റാക്കർ കീയെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കുന്നു ഫോൾട്ട് മൂലം എൻക്രിപ്ഷനിലെ ചില ഓപ്പറേഷൻ താറുമാറാക്കപ്പെടും അതായതു ബ്ലോക്ക് സൈഫറിൻറെ ഒരു പ്രത്യേക ലൊക്കേഷനിൽ ഫോൾട്ട് ഇൻജെക്ട് ചെയ്ത് ആ ഓപ്പറേഷൻറെ ഔട്പുട്ട് നമുക്ക് മാറ്റം വരുത്താം ഈ ഫോൾട്ട് മൂലമുള്ള എറർ സൈഫർ ടെക്സ്റ്റിൻറെ ബാക്കിയുള്ള ഭാഗത്തേക്കും ബാധിക്കും എങ്ങനെ വ്യാപിക്കുമെന്നതും സൈഫർ ടെക്സ്റ്റിലെ എല്ലാ ബിറ്റുകളെയും ബാധിക്കുന്നതുമാണ് ഈ ചുവന്ന ലൈൻസ് കാണിക്കുന്നത് ഇപ്പോൾ അറ്റാക്കർക്ക് രണ്ടു സൈഫർ ടെക്സ്റ്റ് ഉണ്ട് ഫോൾട്ട് ഫ്രീ സൈഫർ ടെക്സ്റ്റിനെ C എന്നും ഫോൾട്ടി സൈഫർ ടെക്സ്റ്റിനെ C എന്നും സൂചിപ്പിക്കാം ഇവരണ്ടും തമ്മിലുള്ള വ്യത്യാസം ഉപയോഗിച്ചാണ് അറ്റാക്കർ രഹസ്യ ഇൻഫർമേഷൻ കൈക്കലാക്കുന്നത് നമുക്ക് ബ്ലോക്ക് സൈഫറിൽ ഒരു ലളിതമായ ഫോൾട്ട് അറ്റാക്ക് നടത്താം നിങ്ങൾക്ക് അറിയാമല്ലോ AES ആണ് വളരെ പ്രസിദ്ധമായതും സാധാരണയായി ഉപയോഗിക്കുന്നതുമായ ബ്ലോക്ക് സൈഫർ AES 128 ബിറ്റ് സൈഫർ ടെക്സ്റ്റ് ആണ് ഇൻപുട്ട് ആയി എടുക്കുന്നത് നമുക്കതിനെ P എന്നും ഓരോ ബിറ്റിനെയും P0 P1 അങ്ങനെ P127 എന്നും പേര് കൊടുക്കാം ഇത് ഇൻപുട്ടിനും രഹസ്യ കീക്കും അനുസൃതമായി പല പല ഓപ്പറേഷൻസ് നടത്തും അങ്ങനെ 10 റൌണ്ട് ഓപ്പറേഷൻസിനു ശേഷം നമുക്ക് സൈഫർ ടെക്സ്റ്റ് C ലഭിക്കും അതിനു C0 മുതൽ C127 വരെ 128 ബിറ്റ് ഉണ്ടാകും

ഇപ്പോൾ നമുക്ക് AES ൻ മേലുള്ള ഒരു ലളിതമായ അറ്റാക്കിനെ പറ്റി വിവരിക്കാം AES ൻറെ അവസാന റൌണ്ടിൽ ഒരു ഫോൾട്ട് ഇൻജെക്ട് ചെയ്യുകയാണ് അറ്റാക്കർ ചെയ്യുന്നത് അവസാന ഓപ്പറേഷൻ ആണ് പ്രധാനം അല്ലാതെ അറ്റാക്കറിനു AES ലെ എല്ലാ കാര്യങ്ങളും അറിയേണ്ട അവശ്യമില്ല അവസാന ഓപ്പറേഷനിൽ ഉപയോഗിക്കുന്ന കീ ടെൻത് റൌണ്ട് കീ എന്നാണറിയപ്പെടുന്നത് അത് ഈ എൻക്രിപ്ഷൻ ഓപ്പറേഷനിലെ ചില ഇൻറ്റർമീഡിയറ്റ് സ്റ്റേറ്റുമായി xor ചെയ്യുമ്പോൾ ആണ് സൈഫർ ടെക്സ്റ്റ് ലഭിക്കുന്നത് അങ്ങനെ ഈ അറ്റാക്കിൽ ഒരു ഫോൾട്ട് ഇൻജെക്ട് ചെയ്യുമ്പോൾ അറ്റാക്കിലേക്ക് സൈഫർ ടെക്സ്റ്റിന്റെ ഒരു ബിറ്റ് ലഭിക്കുന്നു ഇവിടെ ഈ അറ്റാക്കർ ഈയൊരു ലൊക്കേഷനിലേക്കാണ് ഫോൾട്ട് ഇൻജെക്ട് ചെയ്യുന്നത് ഇത് ഈ ലൈൻ 0 ആക്കുവാൻ വേണ്ടിയുള്ള വളരെ നിശ്ചിതമായ ഒരു ഫോൾട്ട് ആണ് അത് കൊണ്ട് തന്നെ ഇത് സ്റ്റക്ക് അറ്റ് 0 ഫോൾട്ട് എന്നാണറിയപ്പെടുന്നത് ഇത് VLSI ടെസ്റ്റിങ്ങിലോക്കെ കണ്ടു വരുന്ന പോപ്പുലർ ആയ ഫോൾട്ട് ആണ് 0 ആണോ 1 ആണോ ആ ലൊക്കേഷനിലെ വാല്യൂ എന്നതിലുപരിയായി ഈ ഫോൾട്ട് അതിനെ 0 ആക്കുന്നു തത്ഫലമായി C ഹാഷ് 0 യുടെ വാല്യൂ എപ്പോഴും K0 ആകുന്നു അതാണ് ഔട്പുട്ട് അതായതു രഹസ്യ കീയുടെ K0 എന്ന ബിറ്റ് ഔട്പുട്ടിലേക്കു പോകും സൈഫർ ടെക്സ്റ്റിലെ ആ പ്രത്യേക ബിറ്റ് നോക്കി കഴിഞ്ഞാൽ K0 ന്റെ വാല്യൂ കിട്ടും ഇങ്ങനെയാണ് രഹസ്യ കീയുടെ ഒരു ബിറ്റ് സംഘടിപ്പിക്കുന്നത് ഇങ്ങനെ രഹസ്യ കീയുടെ എല്ലാ ബിറ്റുകളും ഫോൾട്ട് ഇൻജെക്ട് ചെയ്തു അറ്റാക്കർ നേടിയെടുക്കും ആകെയൊരു പ്രശ്നം എന്താണെന്നു വച്ചാൽ AES രഹസ്യ കീ മുഴുവനായി ലഭിക്കാൻ 128 ബിറ്റ് ഒപ്പിക്കേണ്ടതുണ്ട് ഒരു ബിറ്റ് ഫോൾട്ട് ഉണ്ടാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് അപ്പോൾ 128 ബിറ്റിന്റെ കാര്യം നിങ്ങള്ക്ക് ഊഹിക്കാമല്ലോ പിന്നെ ആളുകൾ ഈ പ്രശ്നത്തെ കുറിച്ചു പഠിക്കുകയും ഒന്ന് രണ്ടു കാര്യങ്ങൾക്കു ഒരു പരിഹാരം കിട്ടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഒന്നാമതായി സൈഫറിന്റെ രഹസ്യ കീ ലഭിക്കുവാനാവശ്യമായ ഫോൾട്ടുകളുടെ എണ്ണം കുറയ്ക്കുകയും രണ്ടാമതായി ഈ മോഡൽ ഒന്ന് ലഘൂകരിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഒരു ബിറ്റ് ഫോൾട്ടിനു ബദലായി രഹസ്യ കീ ലഭ്യമാക്കാനായി ബൈറ്റ്സുകളിൻമേലുള്ള ക്രെമമല്ലാതെയുള്ള ഫോൾട്ടുകളോ പലപല ബൈറ്റ് ഫോൾട്ടുകളോ ഗവേഷകാർ ഉപയോഗിച്ച് നോക്കിയിരുന്നു നമുക്കിതിനെക്കാൾ നല്ലൊരു അറ്റാക്ക് നോക്കാം അതായത ഫോൾട്ട് ഇൻജെക്ട് ചെയ്യുന്ന ലൊക്കേഷൻ മാറ്റിക്കൊണ്ട് ആവശ്യമായ ഫോൾട്ടുകളുടെ എണ്ണം 128 ൽ നിന്ന് 16 കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ ആശയം മനസ്സിലാക്കാനായി ഈ സ്ട്രക്ച്ചറിലേക്കു നോക്കൂ ഇതിൽ ഉപയോഗിക്കുന്ന ഇൻപുട്ടിനെ P എന്ന് വിളിക്കാം P ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ആവണമെന്നില്ല സൈഫറിന്റെ ഏതെങ്കിലും ഇൻറ്റർമീഡിയറ്റ് സ്റ്റേറ്റ് ആകാം ഇത് കീയുമായി xor ചെയ്തിട്ട് എസ് ബോക്സ് ഓപ്പറേഷൻ നടത്തിയാൽ നമുക്ക് സൈഫർ ടെക്സ്റ്റ് കിട്ടും ഇപ്പോൾ അറ്റാക്കറിനു P ൽ ഒരു ലൊക്കേഷനിൽ ഒരു ഫോൾട്ട് ഇൻജെക്ട് ചെയ്യാൻ കഴിയുന്നു അതായതു P യുടെ വാല്യൂ P e ആക്കി മാറ്റിയാൽ നമുക്ക് കിട്ടുന്ന ഔട്പുട്ട് എറർ ഉള്ളതായിരിക്കും ഇവിടെ e എന്നതാണ് ഫോൾട്ട് ഇവിടെ അറ്റാക്കറിനു രണ്ടു സമവാക്യം കിട്ടും ഒന്ന് ഫോൾട്ട് ഇല്ലാത്തത് അതിനെ C എന്നും മറ്റേതു ഫോൾട്ട് ഉള്ളത് അതിനെ C എന്നും വിളിക്കാം തീർച്ചയായും ഫോൾട്ട് ഉള്ളതിനാൽ രണ്ടും തുല്യമായിരിക്കില്ല നമുക്കവയെ ഇങ്ങനെ പ്രതിപാദിക്കാം C SP XOR k C S P XOR e XOR k e ക്കു പൂജ്യമല്ലാത്ത ഒരു വാല്യൂ ഉള്ളതിനാൽ നമുക്കൊരു s box ഓപ്പറേഷൻ കൂടിയുണ്ട് അത് വളരെ വ്യത്യസ്തമായിരിക്കും അപ്പോൾ നമുക്ക് C XOR C നോക്കാം അത് നമുക്ക് ഇങ്ങനെ പ്രതിനിധാനം ചെയ്യാം S P XOR k XOR SP XOR e XOR k അറ്റാക്കറിനു ഫോൾട്ടി സൈഫർ ടെക്സ്റ്റും ഫോൾട്ട് ഫ്രീ സൈഫർ ടെക്സ്റ്റും അറിയാവുന്നതു കൊണ്ട് ഈ സമവാക്യത്തിന്റെ ഘടകങ്ങൾ അറിയാൻ കഴിയും ഇവിടെ അറ്റാക്കർ ചെയ്യുന്നത് k ക്കു സാധ്യമായ എല്ലാ വാല്യൂസ് മാറ്റി മാറ്റി നൽകിക്കൊണ്ട് ഏതൊക്കെ വാല്യൂസ് ആണ് സമവാക്യം സാറ്റിസ്ഫൈ ആകുന്നത് എന്നു നോക്കുകയാണ് e യെ നമുക്ക് ഒരു സിംഗിൾ ബിറ്റ് ഫോൾട്ട് ആയി എടുക്കാം അങ്ങനെയാണെങ്കിൽ e യുടെ വാല്യൂ 00000001 ആകാം LSB മാറ്റപ്പെടുന്ന കേസ് അല്ലെങ്കിൽ 00000010 ആകാം അങ്ങനെ 10000000 വരെ ആകാം അതായതു ഇവിടെ സാധ്യമായ എട്ട് വാല്യൂസ് ഉണ്ട് e ക്ക് ഈ ഓരോ വാല്യൂവിനു അനുസൃതമായി ഈ സമവാക്യത്തിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് അത് LHS ആയി സാമ്യമുണ്ടോ എന്ന് നോക്കുന്നു s box നു അല്ലെങ്കിൽ s function ന് 256 വ്യത്യസ്ത വാല്യൂസ് ഉള്ളതിനാൽ ഈ സമവാക്യത്തിന്റെ സൊല്യൂഷൻ വെറും എട്ടായി കുറയുന്നു മറ്റൊരുതരത്തിൽ പറഞ്ഞാൽ ഇവിടെ അറ്റാക്കറിനു വേണ്ടത് ഈ കീയ്ക്ക് എട്ട് വ്യത്യസ്ത വാല്യൂസ് ആണ് അതായതു അറ്റാക്കർ കീ സ്പേസ് 256 വ്യത്യസ്ത വാല്യൂസിൽ നിന്ന് 8 വാല്യൂസ് ആയി കുറച്ചു ഇപ്പോൾ നമുക്കിത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം AES ന്റെ അവസാന റൌണ്ടിൽ മൂന്നു ഓപ്പറേഷൻ ആണുള്ളത് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റും അതിനു ശേഷം ഷിഫ്റ്റ് റോയും മിക്സ് കോളവും അറ്റാക്കർ ഈ ലൊക്കേഷനിൽ ഫോൾട്ട് ഇൻജെക്ട് ചെയ്യുമ്പോൾ ഈ ബൈറ്റ് ആണ് ഡിസ്റ്റർബ് ചെയ്യപ്പെടുന്നത് SP എന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ് ഓപ്പറേഷൻ മൂലമാണ് ഈ ബൈറ്റ് മോഡിഫൈ ചെയ്യപ്പെടുന്നത് അപ്പോൾ ഔട്പുട്ട് എന്നത് ഫോൾട്ട് ഇല്ലാത്തപ്പോൾ SP ആയിരിക്കും ഫോൾട്ട് ഇൻജെക്ട് ചെയ്യുമ്പോൾ SP f ഉം അപ്പോൾ ഇതെല്ലം സംഭവിച്ച് ഔട്പുട്ട് എത്തുംമ്പോൾ ഔട്പുട്ടിലെ ഈ ബൈറ്റ് ഒന്നുകിൽ SP K0 അല്ലെങ്കിൽ SP f K0 ആയിരി ക്കും ഇതിനെ അടിസ്ഥാനമാക്കി അറ്റാക്കറിനു ഈ സമവാക്യം ഉണ്ടാക്കാൻ കഴിയും C0 C0 SP SP f ഇവിടെ C0 എന്നത് ഫോൾട്ടി സൈഫർ ടെക്സ്റ്റ് ബൈറ്റും C0 എന്നത് ഫോൾട്ട് ഫ്രീ സൈഫർ ടെക്സ്റ്റ് ബൈറ്റും ആണ് ഫോൾട്ട് f ന് വ്യത്യസ്ത വാല്യൂസ് നൽകി അറ്റാക്കർ ഈ സമവാക്യം സാറ്റിസ്ഫൈ ചെയ്യുന്ന സാധ്യമായ എല്ലാ വാല്യൂസും ആവർത്തിക്കുന്നു AES S box വളരെ പ്രശസ്തമായതിനാൽ നമുക്ക് P ക്ക് എട്ടു വാല്യൂസ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും അതായതു രഹസ്യ കീക്കായുള്ള എട്ടു വ്യത്യസ്ത വാല്യൂസ് അതുകൊണ്ട് AES ബ്ലോക്ക് സൈഫറിന് ധാരാളം വ്യത്യസ്തമായ അറ്റാക്കുകൾ ഉണ്ടാകാം അപ്പോൾ നമ്മൾ ഇൻജെക്ട് ചെയ്യുന്ന ഫോൾട്ടുകളുടെ ഫോൾട്സ് എണ്ണം 16 ൽ നിന്ന് ഒന്നാക്കി കുറച്ചു AES അറ്റാക്കുകളിൽ വച്ച് ഏറ്റവും നല്ലത് എട്ടാമത്തെ റൌണ്ടിൽ ഒരു ഫോൾട്ട് ഉപയോഗിച്ചുള്ളതാണ് അതിൽ നിന്ന് AES കീ മുഴുവനായി ലഭിക്കും നമ്മൾ അതിലേക്കൊന്നും വിശദമായി കടക്കുന്നില്ല താല്പര്യമുള്ളവർക്ക് AES ൻ മേൽ ഉള്ള മറ്റുള്ള ശക്തമായ ഫോൾട്ട് അറ്റാക്കുകളെ കുറിച്ചുള്ള ഗവേഷണ പഠനങ്ങൾ കാണാവുന്നതാണ്